കൃത്യതയുടെ കുറച്ചുകൂടി സങ്കീർണ്ണമായ തെളിവുകളോടെ ഞങ്ങൾ ഇപ്പോൾ മറ്റൊരു അത്യാഗ്രഹ ഗ്രീഡി മിനിമൈസിങ് ലേറ്റ്നെസ് അൽഗോരിതം നോക്കുന്നു അതിനാൽ നമ്മൾ നോക്കുന്ന പ്രശ്നത്തെ വിളിക്കുന്നത് മിനിമൈസിങ് ലേറ്റ്നെസ് എന്നാണ് അതിനാൽ അവസാന ഉദാഹരണത്തിലെ ഞങ്ങളുടെ ഇന്റർവെൽ ഷെഡ്യൂളിംഗ് പ്രശ്നം പോലെ ഞങ്ങൾക്ക് ഒരൊറ്റ റിസോഴ്സ് ഉണ്ട് ഈ റിസോഴ്സ് ഉപയോഗിക്കാൻ n അഭ്യർത്ഥനയുണ്ട് അതിനാൽ മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് ആരംഭ സമയവും അവസാന സമയവും ഉണ്ടായിരുന്നു കൂടാതെ ഈ സമയത്തിനുള്ളിൽ റിസോഴ്സ് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇവിടെ ഓരോ അഭ്യർത്ഥനയും പൂർത്തിയാക്കാൻ എനിക്ക് സമയം ആവശ്യമാണെന്നും ഓരോ അഭ്യർത്ഥനയും എനിക്ക് ഒരു സമയപരിധിയോടെ വരുന്നുവെന്നും ഇവിടെ ഞങ്ങൾക്കറിയാം ഇവിടെ ഞങ്ങൾ എല്ലാ അഭ്യർത്ഥനകളും ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നു അതിനാൽ ഓരോ അഭ്യർത്ഥനയും j ആരംഭിക്കുന്ന സമയത്ത് ആരംഭിക്കും അതിനെ sj എന്ന് വിളിക്കുന്നു ഇതിന് tj സമയമെടുക്കും അതിനാൽ ഇത് f ന്റെ അവസാനിക്കും j യുടെ അവസാന സമയം അത് ആരംഭിക്കുന്ന സമയവും ഒപ്പം എടുക്കുന്ന സമയവും ആയിരിക്കും പ്രക്രിയ അഭ്യർത്ഥന j ഇപ്പോൾ ഈ ഫിനിഷ് സമയം സമയപരിധിയേക്കാൾ വലുതാണെങ്കിൽ അത് വൈകിയിരിക്കുന്നു അതിനാൽ ഡിലൈയ് ഫിനിഷ് സമയവും തമ്മിലുള്ള വ്യത്യാസത്തിൽ വൈകിയ തുക നൽകുന്നു പരമാവധി ലേറ്റ്നെസ് കുറയ്ക്കുന്ന ഒരു ഷെഡ്യൂൾ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം അതിനാൽ എല്ലാ ജോലികൾക്കും മേൽ ഈ l j ന്റെ പരമാവധി മൂല്യം കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ഗ്രീഡി തന്ത്രങ്ങൾ തേടുകയാണെന്ന് നമുക്കറിയാവുന്നതിനാൽ ഈ പ്രശ്നത്തിനുള്ള ചില ഗ്രീഡി തന്ത്രങ്ങൾ നമുക്ക് ശ്രമിക്കാം അതിനാൽ കഴിയുന്നത്ര വേഗത്തിൽ ജോലി പൂർത്തിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഞങ്ങൾ ആദ്യം ചുരുങ്ങിയ ജോലി തിരഞ്ഞെടുക്കുന്നു അതിനാൽ ദൈർഘ്യത്തിന്റെ ക്രമത്തിൽ ഞങ്ങൾ ജോലികൾ തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഇതൊരു ഗ്രീഡി തന്ത്രമായിരിക്കാം പക്ഷേ നിർഭാഗ്യവശാൽ വളരെ ലളിതമായ ഒരു കൌണ്ടർ ഉദാഹരണം ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് 2 ജോലികൾ ഉണ്ട് എന്ന് കരുതുക 1 ജോലി 1 സമയം യൂണിറ്റും 2 ജോലി 10 സമയ യൂണിറ്റുകളും എടുക്കുന്നു എന്നാൽ സമയപരിധി യഥാക്രമം 110 ഉം 10 ഉം ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ ജോലിക്ക് വളരെ നീണ്ട ഇടവേളയുണ്ട് അതിനുള്ളിൽ യാതൊരു പിഴയും കൂടാതെ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും അതേസമയം ഈ രണ്ടാമത്തെ ജോലി പൂർത്തിയാക്കാൻ തുടങ്ങുമെന്ന് അനുമാനിച്ച് കൂടുതലോ കുറവോ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഏറ്റവും ചെറിയ ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 1 ന്റെ ഡിലൈയ് നേരിടേണ്ടിവരും കാരണം ഞങ്ങൾ 1 ൽ നിന്ന് പോകും തുടർന്ന് 2 മുതൽ 11 വരെ പോകാൻ പോകുന്നു അതിനാൽ രണ്ടാമത്തെ ജോലി പൂർത്തിയാക്കാൻ പോകുന്നു 1 യൂണിറ്റ് സമയം വൈകി മറുവശത്ത് നമ്മൾ 1 മുതൽ 10 വരെ ചെയ്താൽ 11 ചെയ്യും അപ്പോൾ നമുക്ക് ലേറ്റ്നെസ് ലഭിക്കില്ല നമുക്ക് ലേറ്റ്നെസ് 0 ലഭിക്കും അതിനാൽ ഇവിടെ ഏറ്റവും ചെറിയ ജോലി ആദ്യം തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മികച്ച ഉത്തരം നൽകില്ല അതിനാൽ രണ്ടാമത്തെ തന്ത്രം ആ ജോലികൾ തെരഞ്ഞെടുക്കുക എന്നതാകാം അതിനാൽ നേരത്തെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് 10 ടൈം യൂണിറ്റുകളുള്ള ഒരു ജോലിയുണ്ടെന്നും അതിന് 10 സമയപരിധിയും ആവശ്യമാണെന്നും അതിനാൽ ഒരുപക്ഷേ ആരുടെ സമയം ആ ജോലികൾ തിരഞ്ഞെടുക്കണം സമയപരിധി അവസാനിക്കുന്നു അതിനാൽ എന്റെ ജോലി ആരംഭിക്കുന്നത് വൈകിപ്പിക്കാൻ ഞങ്ങൾക്ക് എത്ര സമയം ശ്രമിക്കാമെന്ന് ഞങ്ങൾ നോക്കുന്നു d j മൈനസ് t j ഏറ്റവും സ്ലാക്ക്ള്ളവ തിരഞ്ഞെടുക്കുക അതിനാൽ ആദ്യത്തേതിന് സമാനമായ ഒരു ഉദാഹരണം ഇവിടെയുണ്ട് ആദ്യ ജോലിയുടെ അവസാന തീയതി ഒഴികെ അതിനാൽ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ജോലിയ്ക്ക് സ്ലാക്ക് 0 ഉണ്ട് ആദ്യത്തെ ജോലിക്ക് സ്ലാക്ക് 1 ഉണ്ട് അതിനാൽ രണ്ടാമത്തേതിന് സമയത്തിന് തുല്യമായ സമയമുണ്ട് ആദ്യത്തേതിന് സമയപരിധി ഉണ്ട് അത് കൃത്യസമയത്തുള്ള ഒരു നോഡാണ് അതിനാൽ ഈ തന്ത്രത്തിലൂടെ ഞങ്ങൾ ആദ്യം t 2 തിരഞ്ഞെടുക്കും നിങ്ങൾ t 2 തിരഞ്ഞെടുത്താൽ t 1 പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഈ ലേറ്റ്നെസ് 11 മൈനസ് 2 ആകും കാരണം ഞങ്ങൾ ആദ്യം t 2 ലേക്ക് പോകുന്നു അതിനാൽ ഞങ്ങൾ t1 ആരംഭിക്കുന്നു ഒരു ജോലി 1 ഒരു സമയം 11 മാത്രം അതിനാൽ ഇത് സമയം 11 പൂർത്തിയാക്കുന്നു പക്ഷേ അതിന് ഫിനിഷ് 2 ഉണ്ടായിരിക്കണം അതിനാൽ ലേറ്റ്നെസ് 9 ആണ് മറുവശത്ത് നമ്മൾ t 1 t 2 എന്നിങ്ങനെ ചെയ്താൽ ലേറ്റ്നെസ് വെറും 1 ആണെന്ന് ഞങ്ങൾ കരുതുന്നു കാരണം രണ്ടാമത്തെ ജോലി 10 ൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു പകരം അത് 11 ന് അവസാനിക്കും അതിനാൽ 11 എന്നത് 1 ആണ് അതിനാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ അവബോധം ഈ ചെറിയ സ്ലാക്ക് സമയം തിരഞ്ഞെടുക്കാൻ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് നല്ലതല്ല അതിനാൽ ജോലി ചെയ്യുന്ന ഒരു ഗ്രീഡി തന്ത്രം ആദ്യം j എന്ന ആദ്യകാല സമയപരിധി ഉപയോഗിച്ച് ജോലി തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ തന്ത്രം യഥാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുക എന്നതാണ് വെല്ലുവിളി അതിനാൽ അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ആദ്യം അനുമാനിക്കും ഞങ്ങളുടെ എല്ലാ ജോലികളും നിശ്ചിത സമയപരിധിക്ക് അനുസരിച്ചാണ് അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ 1 2 3 മുതൽ n വരെ അക്കമിടുന്നു അതിനാൽ 1 ന്റെ സമയപരിധി 2 അല്ലെങ്കിൽ അവസാന തീയതിക്ക് തുല്യമോ കുറവോ ആകട്ടെ ഇപ്പോൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഷെഡ്യൂൾ വളരെ നേരായതാണ് ഞങ്ങൾ ആദ്യം ജോലി 1 ഷെഡ്യൂൾ ചെയ്യുക തുടർന്ന് ജോലി 2 തുടർന്ന് ജോലി 3 എന്നിങ്ങനെ അതിനാൽ ഞങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല സമയപരിധിക്കുള്ളിൽ ഞങ്ങൾ ജോലികൾ ചുരുക്കിയാൽ ഞങ്ങൾ ആ ക്രമത്തിൽ അവരെ ഷെഡ്യൂൾ ചെയ്യുന്നു 1 ആ ജോലി ആരംഭിക്കുന്നു 0 ആ സമയം 0 സെറ്റ് 1 എന്ന് വിളിക്കും അത് എഫ് 1 ൽ അവസാനിക്കുന്നു അതായത് 1 ന്റെ 1 0 കൂടാതെ t ഇപ്പോൾ s 2 ജോലി 2 ന്റെ ആരംഭ സമയം 1 ജോലി ഉടൻ തന്നെ അതിനാൽ f 1 ൽ ഞങ്ങൾ ജോലി 2 ആരംഭിക്കുകയും അത് s 2 പ്ലസ് t 2 ൽ അവസാനിക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ s 3 f 2 ആയിരിക്കും ഞങ്ങൾ ചെയ്യും ജോലി 3 ടൈം 2 ന് ആരംഭിക്കുക ഞങ്ങൾ s 3 പ്ലസ് t 3 ലേക്ക് പോകുകയും ഇതിനെ f 3 എന്ന് വിളിക്കുകയും ചെയ്യും അതിനാൽ ഈ ഡെഡ്ലൈൻ ഓർഡറിൽ മുമ്പത്തെ ജോലി അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ജോലിയും ഷെഡ്യൂൾ ചെയ്യും അതിനാൽ ഞങ്ങൾ കാത്തിരിക്കാതെ ഒന്നിനുപുറകെ ഒന്നായി ജോലികൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനാൽ ഈ ഷെഡ്യൂളിന് വിടവുകളില്ലെന്ന് വ്യക്തമാണ് ഇതിന് നിഷ്ക്രിയ സമയമില്ല ഞങ്ങൾ അനുവദിക്കാൻ ശ്രമിക്കുന്ന റിസോഴ്സ് എല്ലാ n അഭ്യർത്ഥനകളും തീരുന്നതുവരെ തുടർച്ചയായി ഉപയോഗത്തിലുണ്ട് അതിനാൽ ഇപ്പോൾ ക്ലെയിം നിഷ്ക്രിയ സമയമില്ലാത്ത ഒരു ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഉണ്ട് എന്നതാണ് കാരണം നിങ്ങൾക്ക് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്ക് ഉള്ള ഒരു ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഉണ്ടെന്ന് കരുതുക അതേസമയം എനിക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് മാറ്റാൻ കഴിയുമെന്ന് വളരെ വ്യക്തമാണ് ഇത് നോക്കൂ എനിക്ക് എപ്പോഴാണ് ഇത് ഒഴിവാക്കാൻ കഴിയുക എന്നതിൽ ഒരു നിയന്ത്രണവുമില്ല എപ്പോൾ പൂർത്തിയാകുമെന്ന് എനിക്ക് ഒരു നിയന്ത്രണമുണ്ട് അതിനാൽ കാര്യങ്ങൾ നേരത്തേ നീക്കുമ്പോൾ എനിക്ക് ലേറ്റ്നെസ് കുറയ്ക്കാനേ കഴിയൂ അതിനാൽ വിടവുകളുള്ള നീല ഷെഡ്യൂൾ ഒപ്റ്റിമൽ ആയിരുന്നെങ്കിൽ എനിക്ക് അത് നീക്കാൻ കഴിയും അങ്ങനെ അതിന് വിടവുകളില്ല തീർച്ചയായും എന്റെ പുതിയ ഷെഡ്യൂളിന് നീലയിൽ കൂടുതൽ ലേറ്റൻസ് ഉണ്ടാകില്ല അതിനാൽ ഒപ്റ്റിമൽ ഷെഡ്യൂളിന് നിഷ്ക്രിയ സമയമില്ലെന്ന് നമുക്ക് എപ്പോഴും അനുമാനിക്കാം അതിനാൽ ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം നിശ്ചിത സമയക്രമത്തിൽ തരംതിരിച്ച് ആ ഓർഡർ അന്ധമായി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ഷെഡ്യൂൾ ഏത് മികച്ച ഷെഡ്യൂളും പോലെ ഇത് വാദിക്കുക എന്നതാണ് അതിനാൽ മുമ്പത്തെ ഇന്റർവെൽ ഷെഡ്യൂളിംഗ് പ്രശ്നത്തിൽ ഞങ്ങൾ നൽകിയ ഷെഡ്യൂൾ തന്നിരിക്കുന്ന ഒപ്റ്റിമൽ ഷെഡ്യൂളിന് തുല്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഒരേ വലുപ്പമുണ്ടെന്ന് ഞങ്ങൾ കാണിക്കും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അൽപ്പം വ്യത്യസ്തമായി ചെയ്യുന്നത് മറ്റേതെങ്കിലും തന്ത്രം നിർമ്മിക്കുന്ന ഒരു ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഞങ്ങൾ എടുക്കും ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ നിർമ്മിച്ചതിന് സമാനമായ ഒന്നാക്കി മാറ്റും അതിനാൽ ഇതിനെയാണ് ഒരു എക്സ്ചേഞ്ച് ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ചില ഷെഡ്യൂളുകളിൽ ആരംഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ ആ ഷെഡ്യൂളിൽ ഒപ്റ്റിമലിറ്റി സംരക്ഷിക്കുന്നതിനായി കാര്യങ്ങൾ നീക്കുന്നു ഒടുവിൽ ഞങ്ങൾ നൽകിയ ഷെഡ്യൂൾ O നമ്മുടെ ഷെഡ്യൂൾ A യിലേക്ക് മാറ്റും അത് ഗ്രീഡി തന്ത്രങ്ങളിൽ പെടും അതിനാൽ ഞങ്ങളുടെ തന്ത്രം പ്രോസസ്സ് ചെയ്യുകയും സമയപരിധിക്കനുസരിച്ച് ജോലികൾ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഈ ഷെഡ്യൂൾ O നിങ്ങളുടെ ഒപ്റ്റിമൽ ഷെഡ്യൂളിന് ഒരു വിപരീതമുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും സമയപരിധിക്കുള്ളിൽ ക്രമരഹിതമായ രണ്ട് ജോലികൾ ഉണ്ടെങ്കിൽ അതിനാൽ j O എന്നീ ജോലികൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ജോലിയുണ്ട് എന്നാൽ j യുടെ സമയപരിധി i യുടെ സമയപരിധിക്ക് മുമ്പാണ് അതിനാൽ ഞങ്ങളുടെ പരിഹാരം ഗ്രീഡി സൊല്യൂഷൻ പ്രക്രിയകൾ സമയപരിധിയിൽ മാറുന്നതിനാൽ ഞങ്ങളുടെ ഷെഡ്യൂളിൽ വിപരീതഫലങ്ങൾ ഉണ്ടാകില്ല പക്ഷേ ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഞങ്ങൾ അവതരിപ്പിച്ച ഏകപക്ഷീയമായ ഒപ്റ്റിമൽ ഷെഡ്യൂളിന് വിപരീതഫലങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് വിപരീതങ്ങളും നിഷ്ക്രിയ സമയവുമില്ലെങ്കിൽ ലേറ്റ്നെസ് ഒന്നുതന്നെയായിരിക്കണം അതിനാൽ ഒന്നാമതായി നിങ്ങൾക്ക് വിപരീതങ്ങളും നിഷ്ക്രിയ സമയവുമില്ലെങ്കിൽ ഞങ്ങൾക്ക് പുനക്രമീകരിക്കാനുള്ള ഒരേയൊരു ഫ്ലെക്സിബിലിറ്റി കാരണം മുമ്പത്തെ സമയപരിധിയുള്ള കാര്യങ്ങളെക്കാൾ പിന്നീടുള്ള സമയപരിധിക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല ഒരേ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ പുനക്രമീകരിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഉള്ള ഒരേയൊരു ഫ്ലെക്സിബിലിറ്റി ഒരേ സമയപരിധിക്കുള്ളിൽ നമുക്ക് ഒന്നിലധികം ജോലികൾ ഉണ്ടായിരിക്കാം കൂടാതെ ഒരേ സമയപരിധിയുടെ വ്യത്യസ്ത ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പുനക്രമീകരണങ്ങൾ തിരഞ്ഞെടുക്കാം അവ വിപരീതങ്ങളെ സാധൂകരിക്കില്ല കാരണം അവ തുല്യമാണ് പക്ഷേ വിപരീതങ്ങൾ സംഭവിക്കുന്നത് കർശനമായി മാറിയ ഒരു കാര്യത്തിന് ശേഷം നമുക്ക് ചെറിയതോതിൽ ചെറിയ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു ഉത്തരമുണ്ടാകില്ല എന്നതാണ് അവകാശവാദം കാരണം ഒരേ സമയപരിധിക്കുള്ളിൽ ജോലി മാറ്റാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിച്ചാലും അതിനാൽ ഇവിടെ ഒരു ചിത്രം ഉണ്ട് അതിനാൽ ഈ മൂന്ന് ജോലികൾ നീല ജോലി മഞ്ഞ ജോലി ചുവന്ന ജോലി എന്നിവയ്ക്ക് ഒരേ ഡെഡ് ലൈൻ ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇവിടെ നമ്മൾ ആദ്യം നീല പിന്നെ മഞ്ഞ പിന്നെ ചുവപ്പ് ഇവിടെ മറ്റൊരു ക്രമമാണ് അതിനാൽ ഞങ്ങൾ ആദ്യം ചുവപ്പ് പിന്നെ നീല പിന്നെ മഞ്ഞ ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും ഒരേ സമയപരിധി ഉണ്ട് അതിനാൽ ഒരേ സമയപരിധി ഈ ഘട്ടത്തിലാണ് അതിനാൽ സമയപരിധി ഇവിടെയുണ്ട് ഇപ്പോൾ ഈ ജോലികളിൽ അവസാനത്തേത് നമ്മൾ എങ്ങനെ ഷഫിൾ ചെയ്താലും അതേ പോയിന്റ് അവസാനിക്കും കാരണം സമയങ്ങളുടെ ആകെത്തുക ഞങ്ങളുടെ പക്കലുണ്ട് അതായിരിക്കും അവസാനവും അവസാന ജോലിയും ഈ സമയപരിധിക്കുള്ളിൽ പരമാവധി ഡിലൈയ് അതിനാൽ ഞങ്ങൾ പരമാവധി ലേറ്റ്നെസ് കണക്കാക്കുന്നതിനാൽ ഈ ജോലികൾ ഞാൻ എങ്ങനെ ഷഫിൾ ചെയ്യുമെന്നത് പരിഗണിക്കാതെ പരമാവധി ലേറ്റ്നെസ് മാറാൻ കഴിയില്ല ഏത് ജോലിയും അവസാനിക്കും ഒരേ സമയം അവസാനിക്കും കാരണം ഇവയെല്ലാം ഒരേ നീളമുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ തുകയുടെ ആകെത്തുകയാണ് അർത്ഥമാക്കുന്നത് ഞാൻ അവ എങ്ങനെ മാറ്റുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ ഇവയ്ക്ക് ഒരേ നീളമുണ്ട് അതിനാൽ ലേറ്റ്നെസ് മാറുന്നില്ല അതിനാൽ ആരിലും നിങ്ങൾക്ക് രണ്ട് വിപരീതങ്ങളുണ്ടെങ്കിൽ കൂടുതൽ വിപരീതങ്ങളും നിഷ്ക്രിയ സമയവുമില്ലെങ്കിൽ ഞങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ലേറ്റ്നെസ്ന്റെ ഉത്തരം ഇതാണ് അതിനാൽ വിപരീതങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിഷ്ക്രിയ സമയമില്ലാത്ത ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെടാനായാൽ ഇപ്പോൾ ഞങ്ങളുടെ ഷെഡ്യൂൾ A യിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഓർക്കുക Aക്ക് നിർമ്മാണത്താൽ വിപരീതങ്ങളില്ല നിഷ്ക്രിയ സമയമില്ല ഇപ്പോൾ ഞാൻ ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഉണ്ടെന്ന് അവകാശപ്പെടാൻ പോകുന്നു ഞങ്ങൾ O യിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നു വിപരീതങ്ങളില്ലാത്ത നിഷ്ക്രിയ സമയമില്ലാത്ത ചില O പ്രൈമുകളിൽ നിന്ന് ഞങ്ങൾ ഇത് നിർമ്മിക്കാൻ പോകുന്നു മുമ്പത്തെ പരാമർശം അനുസരിച്ച് O പ്രൈമും A യും രണ്ടിനും നിഷ്ക്രിയ സമയത്തിന് വിപരീതങ്ങളില്ലാത്തതിനാൽ അവ യഥാർത്ഥത്തിൽ ഒരേ ലേറ്റ്നെസ് സൃഷ്ടിക്കണം അതിനാൽ ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും അതിനാൽ ഒപ്റ്റിമൽ ഷെഡ്യൂളിന് നിഷ്ക്രിയ സമയമില്ലെന്ന് നമുക്ക് അനുമാനിക്കാമെന്ന് ആദ്യം നമുക്കറിയാം കാരണം നിഷ്ക്രിയ സമയം ഉപയോഗശൂന്യമാണെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലായ്പ്പോഴും അവശേഷിക്കുന്ന എന്തും മാറ്റാനും വിടവുകൾ ചുരുക്കാനും കഴിയും അങ്ങനെ നിഷ്ക്രിയ സമയം ഇല്ല അതിനാൽ ആദ്യത്തെ നിരീക്ഷണം ഇപ്പോൾ ഞങ്ങൾക്ക് നിഷ്ക്രിയ സമയമില്ല എന്നതാണ് അതിനാൽ ഈ ആവശ്യകതയുടെ ഒരു ഭാഗം അനുമാനിക്കപ്പെടുന്നു അതിനാൽ നമ്മൾ വിഷമിക്കേണ്ട ഒരേയൊരു കാര്യം വിപരീതമാണ് അതിനാൽ ആദ്യത്തെ അവകാശവാദം O യ്ക്ക് ഒരു വിപരീതമുണ്ടെങ്കിൽ വാസ്തവത്തിൽ തുടർച്ചയായ രണ്ട് ഘടകങ്ങൾക്കിടയിൽ നമുക്ക് ഒരു വിപരീതമുണ്ടെങ്കിൽ i j എന്നിവയ്ക്ക് ഒരു ജോടി ജോലിയുണ്ട് j എന്നതിന് തൊട്ടുപിന്നാലെയാണ് i എന്നാൽ സമയപരിധി ചെറുതാണ് i യുടെ സമയപരിധി അതിനാൽ വലിയ സമയപരിധിയേക്കാൾ ചെറിയ സമയപരിധിയുള്ള എന്തെങ്കിലും ഞങ്ങളുടെ പക്കലുണ്ട് ഇത് വളരെ വ്യക്തമാണ് കാരണം ഒരു വിപരീതമുണ്ടെങ്കിൽ സമയപരിധി സാധാരണയായി വർദ്ധിച്ചുകൊണ്ടിരിക്കും തുടർന്ന് എവിടെയെങ്കിലും ഇത് ഒരു വിപരീതമാണ് അതിനാൽ അത് താഴേക്ക് വരുന്നു അതിനാൽ അത് താഴേക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്ക് അടുത്തുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ വലുത് ചെറുതിന് മുമ്പായി വരുന്നു അതിനാൽ ക്രമത്തിൽ എവിടെയെങ്കിലും നമുക്ക് വിപരീതമുണ്ടെങ്കിൽ തുടർച്ചയായി രണ്ട് ഇനങ്ങൾക്ക് വിപരീതമുള്ള ചില പോയിന്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഈ രണ്ട് ജോലികൾ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ വിപരീതം നീക്കം ചെയ്യാനാകുമെന്നാണ് അടുത്ത നിരീക്ഷണം അതിനാൽ നമുക്ക് i ഉം j ഉം ഉണ്ട് അതിന് വിപരീതമുണ്ട് അപ്പോൾ i j എന്നിവ കൈമാറുന്നെങ്കിൽ j യ്ക്ക് മുമ്പായി ഇട്ടു ഇപ്പോൾ d യുടെ i യുടെ d നേക്കാൾ കുറവാണ് ഈ വിപരീതം പോയി അതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിപരീതം നീക്കംചെയ്യുന്നത് എന്നത് വ്യക്തമാണ് പക്ഷേ ഇപ്പോൾ വ്യക്തമാകുന്നത് ക്രമരഹിതമായ ഈ തുടർച്ചയായ ജോലികൾ മാറ്റിക്കൊണ്ട് ഈ വിപരീത നീക്കം ചെയ്യാനുള്ള ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഈ ആശയത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കില്ല എന്നതാണ് അതിനാൽ നമ്മൾ ചോദിക്കേണ്ടത് i j എന്നിവ മാറ്റിയതിനുശേഷം നമുക്ക് ഒരു പരിഹാരം ലഭിക്കുമോ അതിന്റെ പരമാവധി ലേറ്റ്നെസ് O യേക്കാൾ വലുതല്ല അതിനാൽ ഞങ്ങൾക്ക് ഒരു മികച്ച പരിഹാരമുണ്ട് ഞങ്ങൾക്ക് ഒരു വിപരീതവും തുടർച്ചയായ വിപരീതവുമുണ്ട് ഞങ്ങൾക്ക് വേണം തുടർച്ചയായ രണ്ട് ഘടകങ്ങൾ മാറ്റിക്കൊണ്ട് ഈ പരിവർത്തനം പഴയപടിയാക്കുക എന്നാൽ ഒപ്റ്റിമലിറ്റി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇത് ഒരു ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് വീണ്ടും കാണാൻ കഴിയും അതിനാൽ ഈ വിപരീതമാണ് ഞാൻ j ന് മുമ്പായി വന്നതെന്ന് ഓർക്കുക എന്നാൽ d ഓഫ് j കർശനമായി കുറവായിരുന്നു d ഓഫ് i അതുകൊണ്ടാണ് ഇത് ഒരു വിവരണമായത് അതിനാൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഈ നീല ചരിത്രത്തിന് കുറച്ച് ചരിത്രമുണ്ടായിരുന്നു തുടർന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് i ഉം പിന്നെ j അതിനാൽ ഇതാണ് എന്റെ ഒറിജിനൽ ഇപ്പോൾ ഞാൻ കൈമാറുന്നതിലൂടെ O പ്രൈമിലേക്ക് പോകാൻ പോകുന്നു അതിനാൽ jയുടെ d എന്നത് iയുടെ dന്റെ ഇടതുവശത്തായിരിക്കുമെന്ന് ഇപ്പോൾ അനുമാനിക്കുക അതിനാൽ jയുടെ d എന്നത് iയുടെ d നേക്കാൾ കുറവാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് j യുടെ ലേറ്റ്നെസ് നോക്കാം അതിനാൽ ഞാൻ j യ്ക്ക് മുമ്പ് അല്ലെങ്കിൽ j ന് മുമ്പ് ഞാൻ ചെയ്താലും i j യുടെ അതേ സമയം എടുക്കുന്നു അതിനാൽ j എന്നതിന്റെ സമയപരിധി മുതൽ j n ന്റെ ലേറ്റ്നെസ് വരെ ഈ ലേറ്റ്നെസ് വരെ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ലേറ്റ്നെസ് കൂടുതലായിരിക്കണം തുടർന്ന് താഴെയുള്ള ലേറ്റ്നെസ് കുറവായിരിക്കില്ല കാരണം iയുടെ d എന്നത് d യുടെ j ന്റെ വലതുവശത്ത് കർശനമായും n പോയിന്റ് ഒന്നുതന്നെയാണ് അതിനാൽ ഞാൻ n പോയിന്റ് നോക്കി ഡെഡ്ലൈൻ പോയിന്റ് കുറച്ചാൽ i യുടെ അവസാന തീയതി n യിലേക്ക് ക്ലോസ് ചെയ്യുക അപ്പോൾ j യ്ക്കുള്ള സമയപരിധി dj d ന് മുമ്പുള്ളതിനാൽ d 1 അതിനാൽ i j എന്നിവ മാറ്റിയാൽ വിപരീതങ്ങളിലേക്ക് നീങ്ങുക ഈ അറിയിപ്പ് കാരണം മറ്റൊരു ജോലിയും വൈകില്ല ഈ പോയിന്റ് വരെയുള്ള മറ്റെല്ലാ ജോലികളും ഈ പോയിന്റിന് ശേഷമുള്ള എല്ലാ സമയത്തും ഒരേ പോയിന്റ് അവസാനിക്കുമ്പോൾ ഒരേ സമയം ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകി അതിനാൽ മറ്റേതൊരു ജോലിയും ലേറ്റ്നെസ് ബാധിക്കുന്നത് മൃദുലതയെ ബാധിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ i j എന്നിവയെ മൊത്തത്തിലുള്ള ലേറ്റ്നെസ് പിന്നീട് കുറയ്ക്കുന്ന തരത്തിൽ മാത്രമേ അത് വർദ്ധിപ്പിക്കുകയുള്ളൂ അതിനാൽ ഒപ്റ്റിമലിറ്റി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇത് സുരക്ഷിതമായ മൃദുവാണ് അതിനാൽ വിപരീതങ്ങളും നിഷ്ക്രിയ സമയവുമില്ലാത്ത ഒപ്റ്റിമൽ ഷെഡ്യൂൾ ഉണ്ടെന്ന ഞങ്ങളുടെ അവകാശവാദത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ മടങ്ങിവരുന്നു ഒപ്റ്റിമൽ സമയമില്ലാതെ ഞങ്ങൾക്ക് ഒരു മികച്ച ഷെഡ്യൂൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാരണം ആ പൊതു തത്വം ഇപ്പോൾ മുമ്പത്തെ വാദത്തിൽ നിന്ന് ലേറ്റ്നെസ് വർദ്ധിപ്പിക്കാതെ തുടർച്ചയായ എല്ലാ വിപരീതങ്ങളും നമുക്ക് നീക്കംചെയ്യാം അതിനാൽ ഒപ്റ്റിമലിറ്റി സംരക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ ഓരോ ജോഡികളും ക്രമരഹിതമാണെങ്കിൽപ്പോലും നിങ്ങൾ n ജോലികൾ ചേർത്താൽ നമുക്ക് n മുതൽ n മൈനസ് 2 വരെ 1 മുതൽ 2 വരെ വിപരീതങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ വിപരീതങ്ങളില്ലാത്തതും നിഷ്ക്രിയമായ സമയമില്ലാത്തതുമായ ഒരു ഒപ്റ്റിമൽ ഷെഡ്യൂൾ ലഭിക്കുന്നതുവരെ ഒപ്റ്റിമലിറ്റിയെ ബാധിക്കാതെ അവയിൽ ഓരോന്നിനെയും നമുക്ക് ചിട്ടയായ വിപരീതമാക്കാനാകും ഏതെങ്കിലും രണ്ട് ഷെഡ്യൂളുകളും വിപരീതങ്ങളല്ലെന്നും നിഷ്ക്രിയ സമയങ്ങളൊന്നും ലേറ്റ്നെസ്ന്റെ തുല്യമായ പദങ്ങളായിരിക്കരുതെന്നും ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ ഞങ്ങളുടെ ഷെഡ്യൂൾ Aക്ക് സ്വത്ത് ഉണ്ട് അതിന് വിപരീതങ്ങളില്ല Oയുടെ ഈ ട്രാൻസ്ഫോർമർ പതിപ്പിന്റെ അതേ ലേറ്റ്നെസ്ന്റെ അതേ ലേറ്റ്നെസ് ഇല്ല കാരണം Oയുടെ പരിവർത്തന പതിപ്പിന് ഒരേ ലേറ്റ്നെസ് O ഉണ്ട് O ആണ് ഒപ്റ്റിമൽ ഞങ്ങളുടെ അൽഗോരിതം ഞങ്ങളുടെ പരിഹാരം A ഒപ്റ്റിമൽ കൂടിയാണ് അതിനാൽ ഈ പ്രശ്നത്തിലെ തന്ത്രം യഥാർത്ഥത്തിൽ ഗ്രീഡി തന്ത്രങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുകയായിരുന്നു നടപ്പാക്കലും സങ്കീർണ്ണതയും കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് ജോലി സമയപരിധിക്കുള്ളിൽ ചുരുക്കണം തുടർന്ന് ഈ ക്രമത്തിൽ അതേ ക്രമത്തിൽ വായിക്കുക അതിനാൽ ജോലികൾ ചുരുക്കുന്നത് n ലോഗ് n എടുക്കുന്നത് സാധാരണമാണ് ഈ ഷെഡ്യൂൾ വായിക്കാൻ ഓർഡർ ലഭിക്കാൻ സമയമെടുക്കും കാരണം അവ ചുരുക്കിയതിനുശേഷം ഞങ്ങൾ 1 മുതൽ n വരെയുള്ള ജോലികൾ വായിക്കുന്നു അതിനാൽ മൊത്തത്തിൽ നമുക്ക് n ലോഗ് n അൽഗോരിതം ഉണ്ട് നന്ദി